ഇന്നു നമ്മൾ ഇവിടെ ഒരു ഡിഫറെൻഷ്യൽ ആംപ്ലിഫയർ എന്താ എന്ന് നോക്കാൻ പോകുകയാണ് നമ്മൾ ഒരു ഓപ്ആമ്പ് ഇൻവെർട്ടിങ് നോൺ ഇൻവെർട്ടിങ് പിന്നെ ഒരു സമ്മിങ് ആംപ്ലിഫയർ ആയും കണ്ടു ഇപ്പോൾ നമുക്ക് ഓപ്ആമ്പ് എങ്ങനെ ഡിഫറെൻഷ്യൽ ആംപ്ലിഫയർ ആയി ഉപയോഗിക്കാം എന്നു നോക്കാം സ്ലൈഡ് സമയം കാണുക 0040 നമ്മൾ സ്ക്രീനിൽ നോക്കുമ്പോൾ ഒരു ഓപ്ആമ്പ് സർക്യൂട്ട് കാണാം ഈ സർക്യൂട്ടിൽ ഒരു ഇൻപുട്ട് ഇൻവെർട്ടിങ് ടെർമിനലിലും ഒരു ഇൻപുട്ട് നോൺഇൻവെർട്ടിങ് ടെർമിനലിലും കൊടുത്തിട്ടുണ്ട് ഈ സർക്യൂട്ടിൽ R1 R2 എന്ന വാല്യൂസ് ഉള്ള റെസിസ്റ്റർസ് ഉണ്ട് ഈയൊരു കോൺഫിഗുറേഷനിൽ എങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയ വിനോട് കണ്ടുപിടിക്കാം ആദ്യത്തെ കേസിൽ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് വിനോട് ആർ വൺ ആർ റ്റു വി വൺ വീടു എന്നിവ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കണം ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോയിൻറ് ഒരെണ്ണം വി മൈനസ് മറ്റൊരു എണ്ണം വി പ്ലസ് ആണ് ഇപ്പോൾ നിങ്ങൾ എന്താണ് കാണുന്നത് വി മൈനസ് ഈക്വൽ വി പ്ലസ് ഇത് എങ്ങനെ വന്നു കാരണം ഓപ്ആമ്പ് ഇൽ കൂടെ കറന്റ് പോകുന്നില്ല സീറോ അല്ലെങ്കിൽ വെർച്വൽ ഗ്രൌണ്ട് കൺസെപ്റ്റ് വിവൺ ഇക്വൽ വി റ്റു അല്ലെങ്കിൽ വി മൈനസ് ഈക്വൽ വി പ്ലസ് നമ്മൾ ഇവിടെ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ഇതാണ്അതായത് ഇ വാല്യു ഐ വൺ അതായത് ഈ വാല്യൂ വി വൺ മൈനസ് വി മൈനസ് അതായത് വി വൺ മൈനസ് വി മൈനസ് ഹരിക്കുക ആർ വൺ V1 - V R1 ഈ വാല്യു പരിഗണിച്ചാൽ അത് വേറൊന്നുമല്ല വി മൈനസ് തന്നെയാണ് കാരണം നമ്മളിവിടെ നോക്കുമ്പോൾ ഇത് V Vo R2 അപ്പോൾ വി പ്ലസ് എന്ന വാല്യൂ എന്താണ് നമുക്ക് എങ്ങനെ വി പ്ലസ് കണ്ടു പിടിക്കാം വി പ്ലസ് നോക്കുമ്പോൾ നമ്മൾ ഗ്രൌണ്ട് കൂടെ കണക്കിലെടുക്കും അതും ഇവിടെ വോൾട്ടേജ് ആണ് അത് ഒരു പൊട്ടൻഷ്യൽ ഡിവൈഡർ പോലെ ആണ് ഇവിടെ നോക്കുമ്പോൾ വി ടു ആണ് പിന്നെ ഇവിടെ ഗ്രൌണ്ടും ഇവിടെ നോക്കുമ്പോൾ നമുക്ക് വി ടു ആർ വൺ ആർ ടു ഇത് ഉപയോഗിച്ചു നമ്മൾ വി പ്ലസ് കാണുന്നു ഇപ്പോൾ എനിക്ക് വി പ്ലസ് അറിയാം കാരണം വി മൈനസ് സമം വി പ്ലസ് V V ഞാനിവിടെ ഇട്ടു നോക്കുമ്പോൾ രണ്ടു വാല്യുവും ഐ വണ്ണിന് സമമാണ് അതായത് വി മൈനസ് ആർ വൺ കൊണ്ട് ഹരിച്ചാലും വി പ്ലസ് മൈനസ് വി സീറോ ആർ ടു കൊണ്ട് ഹരിച്ചാലും ഒന്നാണ് ഇപ്പോൾ ഞാൻ ഈ വാല്യു വി പ്ലസ് ഇക്വേഷൻ ഇൽ കൊടുക്കുന്നു അപ്പോൾ ഞാൻ എഴുതുന്നത് വീ വൺ മൈനസ് ഈ വാല്യു ഹരിക്കുക ആർ വണ്ണിൽനിന്ന് ഇത് ആർ ടു ഹോൾ വാല്യൂ നിന്ന് ഹരിക്കുന്നതിനു സമമാണ് ഇതിൻറെ സമവാക്യം പരിഹരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് വി സീറോ ആണ് ഇതെന്താണ് ഇവിടെ ചെയ്യുന്നത് ഇത് ഒരു ഡിഫറെൻഷ്യൽ ആംപ്ലിഫയർ ആണ് ഇത് ആംപ്ലിഫയ് ചെയ്യുന്നത് രണ്ടു വോൾട്ടേജ് തമ്മിലുള്ള വിത്യാസം ആണ് പിന്നെ എൻറെ ആംപ്ലിഫയർ ഫാക്ടർ എന്താണ് ആംപ്ലിഫിക്കേഷൻ വാല്യൂ കിട്ടുന്നത് ആർ വൺ ആർ ടു തിരഞ്ഞെടുക്കുമ്പോൾ ആണ് ആർ വൺ ആർ ടു എന്താണ് ആർ വൺ ആർ ടു എൻറെ ഫീഡ്ബാക്ക് റെസിസ്റ്റർസ് ആണ് സ്ലൈഡ് സമയം കാണുക 0528 ഇങ്ങനെയാണ് എൻറെ ഡിഫറെൻഷ്യൽ ആംപ്ലിഫയർ പ്രവർത്തിക്കുന്നത് എപ്പോഴൊക്കെ ഞാൻ ഒരു വോൾട്ടേജ് രണ്ടു ടെർമിനലും കൊടുക്കുന്നു അപ്പോഴൊക്കെ ഇതു വർക്ക് ചെയ്യുന്നു വോൾടേജ് വീ വൺ v1 പിന്നെ വീടു മറ്റ് ടെർമിനലും കൊടുക്കുമ്പോൾ എൻറെ ഔട്ട്പുട്ട് വോൾട്ടേജ് മറ്റൊന്നുമല്ല അത് രണ്ടു വോൾട്ടേജ് തമ്മിലുള്ള വ്യത്യാസം ഗുണം ആർ ടു ഹരിക്കുക ആർ വൺ ആണ് ഇതാണ് ഞാൻ മനപ്പാഠമാക്കാൻ പോകുന്ന ഫോർമുല ഇതാണ് എൻറെ ഡിഫറെൻഷ്യൽ ആംപ്ലിഫയർ സ്ലൈഡ് സമയം കാണുക 0553 ഒരു ഉദാഹരണം നമുക്ക് ഇവിടെ സോൾവ് ചെയ്യാം ഒരു ഡിഫറെൻഷ്യൽ ആംപ്ലിഫയർ കോൺഫിഗറേഷൻ നോക്കാം ആർ വൺ ആർ ത്രീ എന്നിവയുടെ വാല്യൂ പത്ത് കിലോ ഓം 10 kilo ohms അതായത് ഇത് 10 കിലോ ഓം ആണ് ആർ ടു ആർ എഫ് എന്നിവയുടെ വാല്യൂ ഇരുപത് കിലോ ഓം ആണ് നമുക്ക് ഔട്ട്പുട്ട് വോൾടേജ് വി സീറോ കണ്ടുപിടിക്കാം പിന്നെ ഇൻപുട്ട് റെസിസ്റ്റൻസ് വി വൺ ടെർമിനലും ഇൻപുട്ട് റെസിസ്റ്റൻസ് വി ടു ടെർമിനലും പല കേസുകൾക്കും കണ്ടുപിടിക്കാം ആദ്യം വി വൺ ഈക്വൽടു സീറോ പിന്നെ വി വൺ ഈക്വൽടു മൈനസ് വി ഐ ടൂ V1 0 and V1 V i2 ഇപ്പോൾ നമുക്ക് ഒന്നൊന്നായി നോക്കാം പിന്നെ Rf R3 R2 R1 ആയതുകൊണ്ട് ഔട്ട്പുട്ട് വോൾടേജ് എന്നു പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇരുപതു ഹരിക്കണം പത്ത് സമം രണ്ടു എന്ന് കൊടുത്താൽ രണ്ട് ഗുണം വി ഐ വൺ മൈനസ് വി ഐ ടു 2 അപ്പോൾ ആർ എഫ് ഇരുപതു കിലോ ഓം പിന്നേ ആർ ത്രീ 10 കിലോ ഓം R3 10 kilo ohm VI1 and VI2 ടെർമിനലിലേക്ക് ഉള്ള ഇൻപുട്ട് റെസിസ്റ്റൻസ് വ്യത്യാസം വരുത്തി ഇവിടെ കാണിക്കുന്നു സ്ലൈഡ് സമയം കാണുക 0707 ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതായത് വി ഐ വൺ ടെർമിനലിൽ ഉള്ള ഇൻപുട്ട് റെസിസ്റ്റൻസ് മറ്റൊന്നുമല്ല അത് ആർ വൺ ആർ ടു കൂടെ കൂട്ടിയതാണ് നമ്മൾ ഈ സർക്യൂട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം വിഐ വണ്ണിലേക്കുള്ള ഇൻപുട്ട് റെസിസ്റ്റൻസ് ആർ വൺ ആർ ടു കൂടെ കൂട്ടിയതാണ് ആർ വൺ പത്ത് ആർ ടു ഇരുപത് കൂട്ടുമ്പോൾ മുപ്പതു കിലോ ഓം കിട്ടും വി ഐ വൺ ഈക്വൽ മൈനസ് വി ഐ ടു ആകുമ്പോൾ എന്താണ് വിഐ ടു ലേക്കുള്ള ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇവിടെ നമ്മൾ കിർച്ചോഫ് വോൾട്ടേജ് ലോ ആണ് ഉപയോഗിക്കുന്നത് ഈ സർക്യൂട്ടിലേക്കു നോക്കൂ നമ്മൾ എങ്ങനെ ആണ് കണ്ടു പിടിക്കാൻ പോകുന്നത് എന്നു കാണാം ഇനിയും കൂടുതൽ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത് അത് വിഐ ടു വിനെ ഐടു കൊണ്ട് ഹരിക്കുക വാല്യൂ കൊടുത്തതിനുശേഷം എൻറെ ഇൻപുട്ട് റെസിസ്റ്റൻസ് വേറൊന്നുമല്ല ടെർമിനൽ ടുവിലേക്ക് ഉള്ളതാണ് അതായത് വിഐടു വിനെ ഐടു കൊണ്ട് ഹരിക്കുക ഇത് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് വാല്യൂ കൊടുക്കുമ്പോൾ എന്താണ് കിട്ടുന്നത് എനിക്ക് കിട്ടുന്നത് ആറ് കിലോ ഓം ആണ് ഇങ്ങനെയാണ് നമ്മൾ ഒരു ഡിഫറെൻഷ്യൽ ആംപ്ലിഫയറിന്റെ ചോദ്യത്തിനു ഉള്ള ഉത്തരം കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ കുറച്ചു വേഗതിൽ ആണ് ചോദ്യങ്ങൾ സോൾവ് ചെയ്യുന്നത് ഞാൻ എൻറെ പ്രഭാഷണം കുറച്ച് വേഗത്തിലാണ് എടുക്കുന്നത് കാരണം ഒരു അധ്യാപകന്റെ ഫ്രീക്വൻസി എന്താണ് എന്ന് നിങ്ങൾക്കും മനസ്സിലാക്കണം ഇത് ഒരു വിദ്യാർഥിയുടെ നൈപുണ്യം ആണ് ഒരു ശ്രോതാവ് എന്ന നിലയിൽ വേഗത കൂട്ടുമ്പോൾ പ്രോബ്ലം മനസ്സിലാക്കാനുള്ള വേഗതയും കൂട്ടണം പിന്നെ ഇതു കൂട്ടാൻ നേരത്തെ ഉള്ള പ്രഭാഷണങ്ങൾ നന്നായി മനസ്സിലാക്കണം ഞാൻ പെട്ടെന്ന് വെർച്യുൽ ഗ്രൌണ്ട് എന്നു പറയുമ്പോൾ നിങ്ങൾ മുൻപത്തെ പ്രഭാഷണങ്ങൾ നോക്കി എന്താണു വെർച്ചൽ ഗ്രൌണ്ട് എന്ന് നോക്കണ്ട കാര്യമില്ല കാരണം നിങ്ങൾ അത് നേരത്തെ തന്നെ മനസ്സിലാക്കിയ കാര്യമാണ് അതേപോലെ ഞാൻ ഇൻവെർട്ടിങ് നോൺ ഇൻവെർട്ടിങ് എന്ന് പറയുമ്പോൾ നിങ്ങള്ക്ക് പെട്ടെന്നു തന്നെ അതിലുള്ള ഉള്ള ഒരു കേസ് പറയാൻ പറ്റണം വി സീറോ മറ്റൊന്നുമല്ല but Rf R1 or Rf R1 ഞാനിപ്പോൾ ഒരു ഡിഫറെൻഷ്യൽ ആംപ്ലിഫയറിന്റെ ചോദ്യം സോൾവ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ ഈ രീതിയിൽ വേണം ഡിഫറെൻഷ്യൽ ആംപ്ലിഫയറിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇവിടെ നമ്മൾ ഡിഫറെൻഷ്യൽ ആംപ്ലിഫയറിന്റെ രണ്ടു ചോദ്യം എടുത്തു അതിൻറെ ഉത്തരം കണ്ടുപിടിച്ചു സ്ലൈഡ് സമയം കാണുക 0954 ഇപ്പോൾ ഞാനൊരു കറൻറ് ടു വോൾട്ടേജ് കൺവെർട്ടർ ചോദ്യം ഇവിടെ കാണിക്കാം ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ നോക്കുമ്പോൾ ഒരു കറൻറ് ടു വോൾട്ടേജ് കൺവെർട്ടർ കാണാം നിങ്ങൾ ഇവിടെ കാണുന്നത് ആദ്യത്തെ സർക്യൂട്ട് ആണ് എനിക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഐഐ ഐ എഫ് എന്നിവ സമമാണ് മറ്റൊരു മാർഗ്ഗത്തിൽ വി പ്ലസ്ഉം പിന്നെ വി മൈനസും പൂജ്യത്തിനു സമമാണ് ഞാനിപ്പോൾ വാല്യൂ കൊടുക്കുമ്പോൾ അതായത് പൂജ്യം മൈനസ് വി സീറോ മറ്റൊന്നുമല്ല മൈനസ് ഐ എഫ് ഗുണിക്കണം ആർ എഫ് അതായതു സീറോ മൈനസ് വി ഓ സമം ഐ ഫ് ഗുണം ആർ ഫ് അതായതു വി ഓ സമം മൈനസ് ഐ ഫ് ഗുണം ആർ ഫ് ട്രാൻസ് റെസിസ്റ്റൻസ് മറ്റൊന്നുമല്ല ഈയൊരു സർക്യൂട്ട് നമുക്ക് ഇപ്പോൾ നോക്കാം ഇപ്പോൾ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് എന്താണ് ട്രാൻസ്കണ്ടക്ടൻസ് ട്രാൻസ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് അതിനെ വിവരിക്കുന്നത് എന്ന് ഇത് നിങ്ങളുടെ ഹോംവർക് ആണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഡെൽറ്റാ വീ നോട് ഹരിക്കണം ഡെൽറ്റാ ഐ എന്നാണ് എഴുതിയത് എന്താണ് ട്രാൻസ് റെസിസ്റ്റൻസ് ഇതിൽ നിന്നും നിങ്ങൾ സ്വന്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇപ്പോൾ വി നോട്ട് എന്നു പറയുന്നത് മൈനസ് ഐ എഫ് ഗുണം ആർ ആർ എഫ് ആണ് ഒരു സർക്യൂട്ട് തന്നാൽ ഇതാണ് അതിൻറെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇപ്പോൾ നമ്മൾ ഈയൊരു സർക്യൂട്ട് നോക്കാം ഒരു ഫോട്ടോ ഡയോഡ് സർക്യൂട്ട് ആണ് ഒരു ഫോട്ടോ ഡയോഡ് സർക്യൂട്ട് തന്നാൽ എങ്ങനെ അതിൻറെ ഔട്ട്പുട്ട് മെഷർ ചെയ്യാം നിങ്ങൾക്കു കാണാം ഇതാണ് ആണ് ഒരു ഫോട്ടോ ഡയോഡ് ഇത് എന്താണ് അതായത് ഐ ഒൺ എന്നുപറയുന്നത് ഇരുപത്തിഅഞ്ചു മൈക്രോ ആംപിയർ പെർ മില്ലി വാട്ട് ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ കറണ്ട് ആണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ ഒരു അൻപത് മില്ലി വാട്ടും അൻപത് മില്ലി വോൾട്ടും ഉള്ളപ്പോൾ എന്താണ് പവർ എന്താണ് കറൻറ് കറൻറ് എന്നു പറയുന്നതു അൻപത് ഗുണം ഇരുപത്തിയഞ്ചു ഗുണം പത്ത ഖാതം മൈനസ് ആറ് അതായത് ഒന്നു പോയിൻറ് രണ്ടു അഞ്ചു മില്ലി ആമ്പിയർ ആണ് ഇപ്പോൾ നമ്മൾ ആർ എഫിന്റെ വാല്യൂ മൂന്ന് പോയിൻറ് രണ്ട് കിലോ ഓം എന്ന് കരുതുക അപ്പോൾ എൻറെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നത് മൈനസ് ഫോർ വോൾട്ട് ആണ് വീണ്ടും എനിക്ക് ഒരു ഫോട്ടോ ഡയോഡ് സർക്യൂട്ടിൻറെ ചിത്രം തന്നാൽ അതിലെ കറണ്ട് ഇരുപത്തിയഞ്ചു മൈക്രോ ആംപിയർ എന്നുപറഞ്ഞാൽ അത് അത്രയും കറണ്ട് ആ ഫോട്ടോ ഡയോഡ് ഒരു മില്ലി വാട്ട് ഇൻസൈഡ് റെഡിയേഷന് ഉൽപാദിപ്പിക്കുന്നുണ്ട് അൻപത് മില്ലി വാട്ടിൽ എന്താണ് എൻറെ ഫൈനൽ വോൾട്ടേജ് ഈ ഫൈനൽ വോൾട്ടേജ് കാണാൻ എനിക്ക് ഫോർമുല ഉപയോഗിക്കണം ഇപ്പോൾ നമ്മൾ ആർ എഫിന്റെ വാല്യൂ മൂന്ന് പോയിൻറ് രണ്ട് കിലോ ഓം എന്ന് കരുതുക അപ്പോൾ എൻറെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നത് മൈനസ് ഫോർ വോൾട്ട് ആണ് ഇങ്ങനെയാണ് ഒരു കറൻറ് ടു വോൾട്ടേജ് കൺവെർട്ടർ പ്രവർത്തിക്കുന്നത് ഫോട്ടോ ഡയോഡ് സർക്യൂട്ട് എന്നത് ഒരു കറൻറ് ടു വോൾട്ടേജ് കൺവെർട്ടറിന്റെ ഉദാഹരണം ആണ് ഇവിടെ നമ്മൾ ഡിഫറെൻഷ്യൽ ആംപ്ലിഫയർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതും കണ്ടു ഇതാണ് ഈ മോഡ്യൂളിൽ ഉള്ളത് അടുത്ത അധ്യായത്തിൽ നമുക്ക് ഒരു ഇന്റഗ്രേറ്ററിന്റെ അപ്ലിക്കേഷൻ കാണാം വേറെ ഒരു അധ്യായത്തിത്തിൽ നമുക്ക് ഒരു ഡിഫറെൻഷ്യറ്റർ അപ്ലിക്കേഷൻ കാണാം ഇപ്പോൾ ഇവിടെ നോക്കൂ ഞാൻ ഓരോ അധ്യായവും ചെറിയ അധ്യായങ്ങൾ ആയി തിരിച്ചിട്ടുണ്ട് ആയതിനാൽ എല്ലാം കോൺസെപ്റ്റും വായിച്ചു മനസ്സിലാക്കാനും തനിയേ പ്രോബ്ലംചെയ്യാനും പറ്റും ഇതിൽ എന്താണ് ആംപ്ലിഫയറിന്റെ അപ്ലിക്കേഷൻ എന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നോക്കൂ ഞാൻ എല്ലാ ലക്ചറും ഇരുപത് ഇരുപത്തിയഞ്ചു മുപ്പതു മിനിറ്റ് ആയി ചുരുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടുവരുകയും എല്ലാ കോൺസെപ്റ്റും മനസ്സിലാക്കി ബാക്കി നിങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ സോൾവ് ചെയ്യാനും പറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം അടുത്ത മോഡ്യൂളിൽ നമുക്ക് ഒരു ഇന്റഗ്രേറ്റർ നോക്കാം അപ്പോഴേക്കും ഇതെല്ലാം പഠിക്കുക എങ്ങനെയാണ് കറൻറ് ടു വോൾട്ടേജ് കൺവെർട്ടർ പ്രവർത്തിക്കുന്നതെന്ന് കണ്ടു പിന്നേ കുറച്ച് ചോദ്യങ്ങളും അതിൻറെ ഉത്തരങ്ങളും തനിയേ കണ്ടുപിടിക്കുക